ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ തുടരും ഗേറ്റുകളുടെ തലത്തിലോ ഫംഗ്ഷണൽ ബ്ലോക്കുകളുടെ തലത്തിലോ RTL ലെവലിൽ കുറഞ്ഞ പവറുള്ള ചില സാങ്കേതിക വിദ്യകൾ ഞങ്ങൾ പരിശോധിക്കും അതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ചർച്ച തുടരുന്നു അതിനാൽ ഞങ്ങൾ ഇത് നോക്കുന്ന ആദ്യ രീതി ഗ്ലിച്ചിനെക്കുറിച്ചാണ് ഗ്ലിച്ചിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ സർക്യൂട്ടിലെ ഒരു ഹസാഡ് ആണ് ഗ്ലിച്ച് ഗേറ്റുകളിലെ ഡിലെ സർക്യൂട്ട് എലെമെന്റ്സ് എന്നിവ കാരണം അനാവശ്യമായ സിഗ്നൽ സംക്രമണങ്ങളെയാണ് ഇവ സൂചിപ്പിക്കുന്നത് ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ഒരു ശുദ്ധമായ സംക്രമണം നടത്തണം എന്നതാണ് നമുക്ക് 0 മുതൽ 1 വരെ പറയാം എന്നാൽ ഈ അസമമായ ഡിലെ കാരണം സിഗ്നലുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഔട്ട്പുട്ടിൽ എത്താൻ അസമമായ സമയമെടുക്കും അതിനാൽ ഔട്ട്പുട്ട് സ്ഥിരമാകുന്നതിന് മുമ്പ് ചില ട്രാൻസിഷൻ ഉണ്ടാകാം ഇവയെ ഗ്ലിച്ചസ് ഓർ ഹസാർഡ്സ് സ്റ്റാറ്റിക് ഹസാഡ് ഡൈനാമിക് ഹസാഡ് Glitches or hazards static hazard dynamic hazard എന്ന് വിളിക്കുന്നു ഇനി നിങ്ങളുടെ സർക്യൂട്ട് രൂപകല്പന ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഗ്ലിച്ചസ് ഉള്ള വിധത്തിലാണോ എന്ന് നോക്കൂ എന്താണ് അർത്ഥമാക്കുന്നത് ഗ്ലിച് എന്നതിനർത്ഥം ഔട്ട്പുട്ട് നോഡ് കുറച്ച് തവണ അനാവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു അതായത് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും അനാവശ്യമായി പലതവണ നടക്കുന്നു അതായത് അധിക പവർ കൺസംപ്ഷൻ അതിനാൽ നിങ്ങൾക്ക് ഗ്ലിച്ചസ് ഒഴിവാക്കാനായാൽ ഇത്തരത്തിലുള്ള പവർ ഡിസ്പേഷനും കുറയും ഇവിടെ നമ്മൾ പ്രത്യേകമായി സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്ലിച്ചിംഗ് പവറിനെക്കുറിച്ചാണ് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെഗ്ലിച് ചിലപ്പോൾ ഹസാർഡ്സ് എന്നും അറിയപ്പെടുന്ന അസന്തുലിതമായ പാത് ഡിലെ കാരണം ഔട്ട്പുട്ടിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ട്രാൻസിഷൻസ് അർത്ഥമാക്കുന്നത് അവ വ്യാജ ട്രാൻസിഷൻസ് ആണെന്നാണ് ഞങ്ങൾ ചില ഉദാഹരണങ്ങളിൽ കാണിക്കും ഇക്കാരണത്താൽ അധിക ട്രാൻസിഷനുകൾ അധിക ചാർജിംഗ് ഡിസ്ചാർജ് എന്നിവ നടക്കുന്നു അല്ലെങ്കിൽ ലോഡ് കപ്പാസിറ്റർ ഉണ്ടാകും അതിനാൽ ഇതിനർത്ഥം അധിക പവർ ഡിസിപ്പേഷൻ എന്നാണ് അതിനാൽ പാത്തും ഡിലെയും സന്തുലിതമാകുന്ന ഡിസൈനുകൾക്ക് അതായത് പ്രാഥമിക ഇൻപുട്ടുകളിൽ നിന്ന് ഔട്ട്പുട്ടുകളിലേക് എല്ലാ പാത്തുകളിലൂടെയും ഡിലെ ഏകദേശം ഒരുപോലെയാണ് ഇത്തരത്തിലുള്ള ഗ്ലിച്ചസോ ഹസാഡോ ഉണ്ടാകാൻ സാധ്യതയില്ല സർക്യൂട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള അസന്തുലിതമായ സ്വഭാവം ഉള്ള സന്ദർഭങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകൂ ഡൈനാമിക് CMOS ലോജിക് ഒരു ഗ്ലിച്ചസും ഉണ്ടാക്കുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇവിടെ സർക്യൂട്ട് പ്രവർത്തിക്കുന്ന രീതി പ്രീ ചാർജ് ചെയ്ത് സ്റ്റേറ്റിനെ കണക്കാക്കുന്നു ഇത്തരത്തിലുള്ള ഗ്ലിച്ചസ് അവിടെ സംഭവിക്കില്ല ഔട്ട്പുട്ട് തീർച്ചയായും ഉയർന്ന തലത്തിലേക്ക് മുൻകൂട്ടി ചാർജ് ചെയ്തതിനാൽ കമ്പ്യൂട്ട് സ്റ്റേറ്റിൽ അത് 0 ലേക്ക് പോകും അതിനാൽ അതിന് 0 ലേക്ക് വീണ്ടും ഹൈലേക്കും വീണ്ടും ലോലേക്കും പോകാൻ കഴിയില്ല അതിനാൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് അതിനാൽ ഈ വീക്ഷണകോണിൽ നിന്ന് ഡൈനാമിക് CMOS സർക്യൂട്ടുകൾ നല്ലതാണ് അവർക്ക് 0 ഗ്ലിച്ചിംഗ് പവർ ഉണ്ടായിരിക്കും നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഇത് വളരെ ലളിതമായ ഒരു സർക്യൂട്ട് ആണ് 2 NAND ഗേറ്റുകൾ അടങ്ങുന്ന 2 ലെവൽ സർക്യൂട്ട് ഇൻപുട്ടുകൾ എല്ലാം 0 ൽ നിന്ന് 1 ലേക്ക് മാറ്റുന്നുവെന്ന് നമുക്ക് പറയാം അതിനാൽ ഗേറ്റുകളിൽ ചെറിയ ഡിലെ ഉണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ D 0 ൽ നിന്ന് 1 ആയി മാറ്റുന്നു അതിനാൽ D 1 ൽ നിന്ന് 0 ആയി മാറും അതിനാൽ ചെറിയ ഡിലെക്ക് ശേഷം D 1 ൽ നിന്ന് 0 ആയി മാറുന്നു ഔട്ട്പുട്ട് E നോക്കുക അതിനാൽ D മാറുമ്പോൾ ഈ C ആണ് ഇതിനകം ഹൈ അതിനാൽ രണ്ട് ഇൻപുട്ടുകളും ഹൈ ആയ ഒരു പീരീഡ് ഉണ്ട് ഒന്ന് ഹൈയും മറ്റൊന്ന് ലോയും ആയ ഒരു പീരീഡ് ഉണ്ട് അതിനാൽ ഇക്കാരണത്താൽ ഔട്ട്പുട്ട് 0 ലേക്ക് പോകുന്ന ഒരു താൽക്കാലിക കാലയളവ് ഉണ്ടാകും അത് വീണ്ടും 1 ലേക്ക് മടങ്ങും അതിനാൽ ഇതൊരു തകരാറാണ് ഇതിനെ സ്റ്റാറ്റിക് ഹാസാർഡ് എന്നും വിളിക്കുന്നു അതായത് ഔട്ട്പുട്ട് 1 ൽ തുടരേണ്ടതായിരുന്നു എന്നാൽ ഡിലെയുടെ അസന്തുലിതാവസ്ഥ കാരണം അത് താൽകാലികമായി താഴേക്ക് പോകുകയും വീണ്ടും ഉയരുകയും ചെയ്യുന്നു അതായത് ഒന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു ഒന്ന് ചാർജ് ചെയ്യുന്നു തംബ് റൂൾ എടുക്കുക മറ്റൊരു ലെവൽ ഉപയോഗിച്ച് മറ്റൊരു സർക്യൂട്ട് എടുക്കുക അതുകൊണ്ട് ആകാര്യം തന്നെ ഇവിടെയും സംഭവിക്കും അതിനാൽ നിങ്ങൾ A B C D എല്ലാം ഒരുമിച്ച് സ്റ്റേറ്റുകൾ മാറ്റുകയാണെങ്കിൽ ഗ്ലിച്ചസ് സംഭവിക്കും എന്നാൽ ഇതേ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇതുപോലെ ഇമ്പ്ലിമെൻറ് ചെയ്യാം ഇവിടെ എല്ലാ ഇൻപുട്ടുകളിൽ നിന്നും ഔട്ട്പുട്ടുകളിലേക്കുള്ള ഡിലെ എല്ലാം സന്തുലിതമാണ് അവയെല്ലാം 2 ഗേറ്റ് ഡിലെക്ക് തുല്യമാണ് എന്നാൽ മുമ്പത്തെ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് സിഗ്നലുകളിലൊന്ന് വേഗത്തിൽ വരുന്നതായും മറ്റേ സിഗ്നൽ സാവധാനത്തിലാണെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത് സാവധാനത്തിൽ വരുന്നതിനാലും ഇത് വേഗത്തിൽ വരുന്നതിനാലും ഒരു ഓവർലാപ്പ് ഉണ്ടായി ആ ഓവർലാപ്പ് കാരണം ഈ ഗ്ലിച് സംഭവിക്കുന്നു പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇത് സമതുലിതമാക്കാൻ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള അസമമായ പാത് ഡിലെ സംഭവിക്കില്ലെന്ന് ഞാൻ അർത്ഥമാക്കുന്നു അതിനാൽ നിങ്ങൾക് ചെയിൻ സ്ട്രക്ചർ പോലെ ഗേറ്റ്സ് ക്യാസ്കേട് ആയി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ചില ഗേറ്റ്സ് നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകാം അവിടെ തംബ് റൂൾ ഉപയോഗിക്കാം ഗ്ലിച്ചസിനെ സംബന്ധിച്ച് ഇത് ഒരു നല്ല സ്ട്രക്ചർ അല്ല അത്തരത്തിലുള്ള നിരവധി ഗ്ലിച്ചസ് ഇവിടെ ഉണ്ടായിരിക്കും എന്നാൽ നിങ്ങൾ ഒരേ സർക്യൂട്ട് ബാലൻസ് ട്രീ സ്ട്രക്ചറായായി നടപ്പിലാക്കുകയാണെങ്കിൽ ഇതിന് കുറച്ച് ഗ്ലിച്ചസ് മാത്രമേ ഉണ്ടാകൂ അതിനാൽ ഔപചാരികമായ ഒരു ഗ്ലിച്ച് വിശകലനം കൂടാതെ തന്നെ ഈ ടോപ്പോളജിtopology സ്ട്രക്ചർ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് വിശകലനം ചെയ്യാം കൂടാതെ ഇത് ഒരു ബാലൻസ് ട്രീ പോലെയുള്ള രീതിയിൽ ക്രമീകരിക്കാൻ കഴിയുമെങ്കിൽ ഗ്ലിച്ചസ് എണ്ണത്തിൽ കുറവായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാം അടുത്തതായി ഞങ്ങൾ വളരെ രസകരമായ ഒരു ആശയത്തിലേക്ക് നോക്കുന്നു അതിനെ പ്രീ കമ്പ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നു ഈ അപ്പ്രോച്ചിന് പിന്നിലെ പ്രചോദനം ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ ഞങ്ങൾക്ക് ഒരു ഫങ്ഷണൽ ബ്ലോക്ക് ഉണ്ടെന്ന് കരുതുക ഞങ്ങൾ പിന്നീട് ഒരു ഉദാഹരണം എടുക്കും ഒരു ഫങ്ഷണൽ ബ്ലോക്ക് ഇൻപുട്ടുകൾ വരുന്നു ബ്ലോക്ക് എന്തെങ്കിലും കമ്പ്യൂട്ട് ചെയ്യുകയും ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ ഫങ്ഷണൽ ബ്ലോക്കിന്റെ തരത്തെ ആശ്രയിച്ച് ഔട്ട്പുട്ട് ജനറേറ്റുചെയ്യാൻ നിങ്ങൾ എടുക്കുന്ന മൊത്തം സമയം അസമമായിരിക്കും ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ 2 ഇൻപുട്ടുകൾ വരുന്നതായി ഞാൻ പരിഗണിക്കുന്ന ഉദാഹരണം പോലെ സർക്യൂട്ട് ഒരു മാഗ്നിറ്റ്യൂഡ് കംപറേറ്റർ ഇത് വരുന്ന 2 സംഖ്യകളുടെ മാഗ്നിറ്റ്യൂഡ് താരതമ്യം ചെയ്യുന്നു അവ ബൈനറി സംഖ്യകളാണെന്ന് നിങ്ങൾ അനുമാനിക്കുന്നു ഔട്ട്പുട്ട് നമുക്ക് 0 1 എന്ന് പറയാം അത്തരത്തിലുള്ള ഒന്നിനെക്കാളും ചെറുതോ വലുതോ ആയ ഒന്നിനെ സൂചിപ്പിക്കുന്നു അവ തുല്യമാണോ എന്ന് ഇപ്പോൾ 2 നമ്പറിന്റെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുകൾ ഞാൻ താരതമ്യം ചെയ്യുന്നുവെന്ന് കരുതുക അതിനാൽ അവയിലൊന്ന് 1 ആണ് മറ്റൊന്ന് 0 ആണ് അതിനാൽ അവയിലൊന്ന് 1 ആണെങ്കിൽ അൺസൈൻഡ് ആണെന്ന് കരുതുക തീർച്ചയായും ആ സംഖ്യ മറ്റേതിനേക്കാൾ വലുതായിരിക്കും അതിനാൽ ഞാൻ ശേഷിക്കുന്ന n മൈനസ് 1 നമ്പറുകൾ നോക്കേണ്ടതുണ്ടോ അവ n ബിറ്റ് നമ്പറുകളാണെങ്കിൽ ഇല്ല ഒരു സംഖ്യ ഒരു ബിറ്റ് നോക്കിയാൽ ഈ സംഖ്യ മറ്റേതിനേക്കാൾ വലുതാണെന്ന് എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും അതിനാൽ എനിക്ക് ആ തീരുമാനം നേരത്തെ എടുക്കാൻ കഴിയുമെങ്കിൽ ശേഷിക്കുന്ന കമ്പ്യൂട്ടേഷൻ എനിക്ക് ഇല്ലാതാക്കാം ഇതാണ് ചില സാധാരണ കേസുകളിലെ പ്രീ കംപ്യൂട്ടേഷൻ അതിനാൽ ഇതൊരു സാധാരണ കേസാണെന്ന് ഞാൻ അനുമാനിക്കുന്നു ചില പ്രത്യേക സർക്യൂട്ടുകൾ ഉപയോഗിച്ച് ചില സാധാരണ കേസുകൾ നേരത്തേ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ ആ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ആ കണ്ടിഷൻ നിലനിർത്തിയാൽ പ്രധാന ഫങ്ഷണൽ ബ്ലോക്കിനെ കമ്പ്യൂട്ടേഷനിലിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഡിസേബിൾ ചെയ്യും അതായത് അത് ആവശ്യമില്ല അതിനാൽ അനാവശ്യമായ ട്രാന്സിഷൻ ഡിസേബിൾ ആണ് ആശയം ഇതാണ് അതിനാൽ നമുക്ക് നോക്കാം അതിനാൽ പവർ ഡിസ്പേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ചില പാതകൾ ഡിസേബിൾ ചെയ്യുന്നതിനോ അൺ സെലക്ട് ചെയ്യുന്നതിനോ ചില പ്രീ കമ്പ്യൂട്ടേഷൻ ലോജിക് ഇവിടെ പ്രവർത്തിക്കുന്നു അതിനാൽ ഞങ്ങൾ ഒരു കംപറേറ്ററിന്റെ ഉദാഹരണം എടുക്കും സാധാരണ ഉപയോഗം ഇങ്ങനെ പോകുന്നു അതിനാൽ എനിക്ക് ഒരു കോമ്പിനേഷൻ ബ്ലോക്ക് ഉണ്ട് അതിന്റെ ഇൻപുട്ടുകൾ ഒരു രജിസ്റ്ററിൽ നിന്ന് വരുന്നു ഞാൻ പറഞ്ഞതുപോലെ ചില നിർദ്ദിഷ്ട ഇൻപുട്ട് പാറ്റേണുകൾക്കായി എനിക്ക് നോക്കാം ചില പാറ്റേണുകൾ കണ്ടെത്തിയാൽ ഈ രജിസ്റ്ററുകൾ ലോഡ് ചെയ്യുന്നത് നമുക്ക് ഡിസേബിൾ ചെയ്യാം അങ്ങനെ പുതിയ വാല്യൂസ് ലോഡ് ചെയ്യപ്പെടില്ല അതുവഴി കോമ്പിനേഷൻ ലോജിക്കിലെ ട്രാന്സിഷൻസ് ഒഴിവാക്കപ്പെടും അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു കംപറേറ്ററിന്റെ ഉദാഹരണം ഞങ്ങൾ ഇവിടെ കാണിക്കുന്നു ഇതാണ് ആദ്യത്തെ ജനറൽ ബ്ലോക്ക് ഡയഗ്രം ഇത് എന്റെ യഥാർത്ഥ സർക്യൂട്ട് ആയിരുന്നുവെന്ന് നമുക്ക് പറയാം ഒരു കോമ്പിനേഷൻ ലോജിക് ഉണ്ട് ഒരു ഇൻപുട്ട് രജിസ്റ്ററും ഉണ്ട് ഒരു ഔട്ട്പുട്ട് രജിസ്റ്ററും ഉണ്ട് അതിനാൽ സാധാരണയായി ഒരു പൈപ്പ്ലൈനിൽ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇതുപോലെയുള്ള സർക്യൂട്ടുകൾ നമുക്കുണ്ട് ക്ലോക്ക് സിഗ്നൽ ഉള്ളിടത്ത് ഈ രജിസ്റ്റർ R1 ലോഡുചെയ്യുന്ന ഡാറ്റ വാല്യൂ ഇവിടെ വരും റിസൾട്ട് കണക്കുകൂട്ടും ഈ ഔട്ട്പുട്ടിൽ റിസൾട്ട്ലോഡ് ചെയ്യുന്ന മറ്റൊരു ക്ലോക്ക് വരും ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ചില എക്സ്ട്രാ ലോജിക് ഇവിടെ ചേർക്കുന്നു എന്നതാണ് ഞങ്ങൾ ചില പ്രത്യേക ഇൻപുട്ട് പാറ്റേണുകൾക്കായി തിരയുകയാണ് ഇതാണ് ഞങ്ങളുടെ പ്രീ കമ്പ്യൂട്ടേഷൻ ലോജിക് അതിനാൽ ചില നിർദ്ദിഷ്ട പാറ്റേണുകൾ ഉണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്ററിന്റെ ലോഡിംഗ് ഡിസേബിൾ ചെയ്യാം അല്ലാത്തപക്ഷം ഞങ്ങൾ അത് സാധാരണ പോലെ ലോഡ് ചെയ്യും അതിനാൽ ഇത് ഒരു ക്ലോക്ക് ഗേറ്റിംഗ് പോലെയായിരിക്കും അവിടെ സാധാരണയായി ക്ലോക്കുകൾ വരും എന്നാൽ ചില പ്രത്യേക പാറ്റേണുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്ട്രാ കമ്പ്യൂട്ടേഷൻ ആവശ്യമില്ല ഇതിനർത്ഥം ഞാൻ ഈ രജിസ്റ്റർ ലോഡുചെയ്യുന്നില്ലെങ്കിൽ ഔട്ട്പുട്ടുകൾ ട്രാന്സിഷ നുകളൊന്നും നടത്തുകയില്ല അതായത് കോമ്പിനേഷൻ സർക്യൂട്ടിനുള്ളിൽ ട്രാന്സിഷനുകളൊന്നും ഉണ്ടാകില്ല ഡൈനാമിക് പവർ കൺസംപ്ഷൻ ഞാൻ ഇവിടെ ഒഴിവാക്കുകയാണ് കംപറേറ്ററിന്റെ ഉദാഹരണം ഇങ്ങനെ പോകുന്നു എനിക്ക് 0 മുതൽ n മൈനസ് 1 n ബിറ്റുകൾ വരെയുള്ള A B എന്നീ 2 സംഖ്യകളുണ്ട് ഞാൻ പറയുന്നത് ഈ സംഖ്യകളെല്ലാം റെസിസ്റ്ററുകളിലേക്ക് നൽകപ്പെടുന്നു അതിനാൽ ഈ A n മൈനസ് 1 ഉം B n മൈനസ് 1 ഉം ഒരു പ്രത്യേക രജിസ്റ്ററിലേക്ക് നൽകപ്പെടുന്നുവെന്ന് ഞാൻ അനുമാനിക്കുന്നു A യുടെ ശേഷിക്കുന്ന n മൈനസ് 1 ബിറ്റ് ഇവിടെ നൽകപ്പെടുന്നു ശേഷിക്കുന്ന n മൈനസ് 1 ബിറ്റ് B ഇവിടെ നൽകുന്നു അതിനാൽ ഞാൻ പറയുന്നത് ഞങ്ങൾ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുകൾ താരതമ്യം ചെയ്യുന്നു എന്നതാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ താരതമ്യം ചെയ്യും ഞങ്ങൾ ഒരു എക്സ്ക്ലൂസീവ് NOR ഗേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എക്സ്ക്ലൂസീവ് NOR എന്താണ് അർത്ഥമാക്കുന്നത് ഈ ബിറ്റുകൾ 0 0 ആണോ 1 1 ആണോ എന്ന് നോക്കൂ എന്താണ് 0 0 അല്ലെങ്കിൽ 1 1 എന്നതിനർത്ഥം XNOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും എന്നാണ് അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള n മൈനസ് 1 ബിറ്റ് നോക്കൂ ആ സാഹചര്യത്തിൽ മാത്രം ഏതാണ് വലുത് എന്ന് കണ്ടെത്താൻ ബാക്കിയുള്ള n മൈനസ് 1 ബിറ്റ് നോക്കണം എന്നാൽ ഇവ രണ്ടും തുല്യമല്ലെന്ന് കണ്ടെത്തിയാൽ ഒന്നുകിൽ 1 0 അല്ലെങ്കിൽ 0 1 അതായത് ഔട്ട്പുട്ട് 0 ആണ് അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക വൺ ബിറ്റ് കംപറേറ്റർ ഉണ്ട് ഈ 2 ബിറ്റുകൾ താരതമ്യം ചെയ്യുക ആ റിസൾട്ട് നേരിട്ട് ഔട്ട്പുട്ടിലേക്ക് അയക്കാം ഇത് ഉൾപ്പെടുത്താതെ n മൈനസ് 1 ബിറ്റ് കംപാറേറ്റർ ഈ ബിറ്റ് തുല്യമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് സജീവമാക്കൂ അതിനാൽ ഈ ബിറ്റ് തുല്യമല്ലാത്തപ്പോൾ ഈ 2 റെസിസ്റ്ററുകൾ R2 R3 എന്നിവയിലേക്ക് ഞങ്ങൾ പുതിയ വാല്യൂസൊന്നും ലോഡ് ചെയ്യുന്നില്ല അതുവഴി കോമ്പിനേഷൻ സർക്യൂട്ടിന്റെ ഈ ഭാഗത്ത് സംഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ട്രാന്സിഷൻസ് ഞങ്ങൾ തടയുന്നു അതിനാൽ നമുക്ക് പവർ കൺസംപ്ഷൻ ഗണ്യമായി കുറയ്ക്കാൻ കഴിയും ഇതാണ് ഞാൻ പറഞ്ഞത് 2 മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുകൾ വ്യത്യസ്തമാണെങ്കിൽ മറ്റ് ബിറ്റുകൾ നോക്കേണ്ടതില്ല അതിനാൽ ഇത്തരത്തിലുള്ള കണ്ടിഷൻ നിർണ്ണയിക്കാൻ കഴിയുന്ന ഏത് തരത്തിലുള്ള സർക്യൂട്ടിനും ഇൻപുട്ടുകൾ തിരഞ്ഞെടുത്ത് ഡിസേബിൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഈ പ്രീ കണ്ടീഷൻ ലോജിക്കോ പ്രീ കമ്പ്യൂട്ടേഷൻ ലോജിക്കോ ഉപയോഗിക്കാം ക്ലോക്ക് ഗേറ്റിംഗ് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് നിങ്ങൾക്കറിയാം ചില ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലേക്കോ രജിസ്റ്ററുകളിലേക്കോ എത്തുന്നതിൽ നിന്ന് ഞങ്ങൾ ചിലപ്പോൾ തിരഞ്ഞെടുത്ത് ക്ലോക്ക് നിർത്തുന്നു അങ്ങനെ അനാവശ്യമായ ട്രാന്സിഷൻസ് ഒഴിവാക്കപ്പെടും അതിനാൽ ടെസ്റ്റബിലിറ്റിയുടെ വീക്ഷണകോണിൽ നിന്ന് ഇത് ഒരു നല്ല സമ്പ്രദായമല്ലെന്ന് ഞാൻ പറഞ്ഞതുപോലെ കൂടാതെ റേസ് കണ്ടിഷൻസും സംഭവിക്കാം പക്ഷേ കുറഞ്ഞ പവർ ഡിസൈൻ വീക്ഷണകോണിൽ ഇത് വളരെ ഫലപ്രദമാണ് പ്രാഥമികമായി ഒരു സാധാരണ ചിപ്പിൽ ക്ലോക്ക് നെറ്റ്വർക്ക് പവർ ഡിസ്സിപ്പേഷന്റെ ഒരു പ്രധാന ഉറവിടമാണ് കാരണം ക്ലോക്ക് നെറ്റ്വർക്കിന്റെ ഓരോ നോഡും ഓരോ ക്ലോക്ക് പിരീഡിലും ഓരോ സൈക്കിളിലും 2 ട്രാന്സിഷൻസ് നടത്തുന്നു ഓരോ നോഡിലും ആൽഫ ആക്ടിവിറ്റിയുടെ ഏറ്റവും ഉയർന്ന വാല്യൂ ഉള്ള നെറ്റ്വർക്കാണിത് അതിനാൽ ഈ ക്ലോക്ക് സിഗ്നലുകളിൽ ചിലത് ഡിസേബിൾ ചെയ്യാൻ കഴിയുമെങ്കിൽ സിഗ്നൽ ആക്ടിവിറ്റി കുറയ്ക്കാൻ കഴിയും അതിനാൽ ക്ലോക്ക് നെറ്റ്വർക്കിനെ ടാർഗെറ്റുചെയ്യുന്നത് വളരെ ന്യായമാണ് കാരണം അവയാണ് മാക്സിമം ആക്ടിവിറ്റി നടക്കുന്ന നോഡുകൾ അതിനാൽ നിലവിൽ ഉപയോഗിക്കാത്ത ക്ലോക്ക് നെറ്റ്വർക്കിന്റെ ഭാഗം ഡിസേബിൾ ചെയ്യാൻ കഴിയുമെങ്കിൽ സിഗ്നൽ ട്രാന്സിഷൻസ് ഗണ്യമായി കുറയുന്നു അതിനാൽ നമുക്ക് ഇവിടെ ഒരു ലളിതമായ ബൈനറി കൌണ്ടർ നോക്കാം ഇത് ബൈനറി റിപ്പിൾ കൌണ്ടറാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് നൽകുന്നു അല്ലെങ്കിൽ ഇതൊരു ഷിഫ്റ്റ് റെസിസ്റ്റർ പോലെയാണ് ഒരു കൌണ്ടറല്ല ഇതാണ് ഷിഫ്റ്റ് രജിസ്റ്റർ ഔട്ട്പുട്ട് അടുത്തതിലേക് ഫീഡ് ചെയ്യുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ബുദ്ധിമുട്ടാണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ഇൻപുട്ടിലേക്ക് നൽകുന്നു ടെസ്റ്റബിലിറ്റി പരിഗണനകൾ ടെസ്റ്റിനുള്ള ഡിസൈൻ എന്നിവയിൽ നിന്ന് ഇത് അനുവദനീയമല്ല കാരണം ഡിഎഫ്ടിക്ക് നിങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഒരു സ്കാൻ ചെയിനിൽ ഇടാൻ ആഗ്രഹിക്കുമ്പോൾ അവയ്ക്കെല്ലാം നൽകുന്നതിന് നിങ്ങൾക്ക് ക്ലോക്ക് സിഗ്നൽ ആവശ്യമാണ് അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സർക്യൂട്ട് സ്ട്രക്ചറുണ്ടെങ്കിൽ ഡിഎഫ്ടി വീക്ഷണകോണിൽ നിന്ന് ഇത് വളരെ സൌകര്യപ്രദമല്ല അതിനാൽ നിങ്ങൾ ചെയ്യുന്നത് ഇത് ഇതുപോലെ തോന്നിപ്പിക്കുന്നതിന് കുറച്ച് കൺട്രോൾ പിന്നും കുറച്ച് എക്സ്ട്രാ ഹാർഡ്വെയറും ആഡ് ചെയ്യക എന്നതാണ് നിങ്ങൾ എന്തുചെയ്യുന്നു നിങ്ങൾ ഇവിടെ ചില അധിക മൾട്ടിപ്ലക്സറുകൾ ചേർക്കുകയും എല്ലാ ഇൻപുട്ടുകളിലേക്കും ക്ലോക്ക് നൽകുകയും ചെയ്യുന്നു അതിനാൽ ടെസ്റ്റിംഗ് മോഡിൽ നിങ്ങൾക്ക് എല്ലാ ഇൻപുട്ടുകളും ശരിയായി നൽകുന്നതിന് ക്ലോക്ക് ഉപയോഗിക്കാം ഈ ഡി ഇൻപുട്ടുകൾ എവിടെ നിന്നോ വരുന്നു അതിനാൽ ഡി ഞാൻ കാണിക്കുന്നില്ല ഈ T അധിക എക്സ്ട്രാ കണ്ട്രോൾ പിൻ ആയിരിക്കും മൾട്ടിപ്ലക്സർ നിയന്ത്രിക്കാൻ ഇത് ഉപയോഗിക്കാം അതിനാൽ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ക്ലോക്ക് പ്രവർത്തനക്ഷമമാക്കാം ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ക്ലോക്ക് പ്രവർത്തനരഹിതമാക്കാം ഒരു ഡിസൈനിൽ ഇത്തരത്തിലുള്ള സ്ട്രക്ചർ ദൃശ്യമാകുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക്ഇത് ഉപയോഗിക്കാൻ കഴിയൂ ഇതൊരു രസകരമായ സ്ട്രക്ചർ ആണ് ഇവിടെ പോലെ 2 വരികൾ എന്തായാലും കാണുന്നില്ല ചില വരികൾ കാണുന്നില്ല ഇത് നോക്കൂ ഈ ക്ലോക്ക് ഇവിടെ ഫീഡ് ചെയ്യുന്നു ഈ ഡി ഇവിടെയാണ് നൽകുന്നത് ഇവിടെ നോക്കൂ ഞാൻ ഇപ്പോൾ ഈ ഡയഗ്രം വീണ്ടും വരയ്ക്കുകയാണ് അതിനാൽ സർക്യൂട്ട് ഇതുപോലെയാണ് എനിക്ക് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് അതിനാൽ എക്സ്ടെർണൽ ഇൻപുട്ടിൽ നിന്ന് D ഇവിടെ വരുന്നു ഇതാണ് എന്റെ ഔട്ട്പുട്ട് അതിനാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ചില അധിക സർക്യൂട്ടുകളും XOR ഗേറ്റും ആഡ് ചെയ്യുന്നു പിന്നെ ഒരു AND ഗേറ്റ് AND ഗേറ്റിന്റെ ഔട്ട്പുട്ട് ക്ലോക്ക് സിഗ്നലിനെ ഫീഡ് ചെയ്യുന്നു ഇപ്പോൾ ഈ ക്ലോക്ക് സിഗ്നൽ ഇവിടെ ഫീഡ് ചെയ്യുന്നു ഈ XOR ഗേറ്റ് ഇൻപുട്ടിൽ ഒന്ന് D ൽ നിന്നും മറ്റേ ഇൻപുട്ട് Q ൽ നിന്നും നൽകുന്നു അപ്പോൾ ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഇതിനെ ഞാൻ ലോ പവർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വിളിക്കുന്നു എന്തുകൊണ്ട് ലോ പവർ എന്ന് ജസ്റ്റിഫയ് ചെയ്യാൻ ശ്രമിക്കാം സാധാരണ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക ഞാൻ ഒരു സാധാരണ ഫ്ലിപ്പ് ഫ്ലോപ്പ് വശങ്ങളിലായി കാണിക്കുകയാണ് ഒരു സാധാരണ ഫ്ലിപ്പ് ഫ്ലോപ്പിന് D ഇൻപുട്ട് ഉണ്ടായിരിക്കും അതിന് ഒരു Q ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും അതിനും ഒരു ക്ലോക്ക് ഉണ്ടായിരിക്കും ഫങ്ക്ഷണലി ഈ 2 ഉംതുല്യമാണ് എന്നാൽ ഈ സ്ട്രക്ചർ കുറഞ്ഞ ഊർജ്ജം ഉപയോഗിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം ഈ സർക്യൂട്ടിൽ ക്ലോക്ക് ഒരു പീരിയോഡിക് സിഗ്നലാണെന്ന് നിങ്ങൾ കാണുന്നു അത് തുടർച്ചയായി വരുന്നു അതിനാൽ ഒരു ക്ലോക്ക് ഉള്ളപ്പോഴെല്ലാം ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലോക്കിന്റെ പോസിറ്റീവ് എഡ്ജ് ഉപയോഗിച്ച് സജീവമാക്കിയെന്ന് കരുതുക അതിനാൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിൽ ഞാൻ അപ്ലൈ ചെയ്തതെന്തും സ്റ്റോർ ചെയ്യും അതിനാൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനുള്ളിൽ നിരവധി ഗേറ്റുകൾ ഉണ്ട് ചില ഗേറ്റുകൾക്ക് ചില ട്രാന്സിഷൻസ് ഉണ്ടാകും കാരണം ഈ ക്ലോക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഉള്ളിൽ കുറച്ച് പവർ കൺസംപ്ഷൻ ഉണ്ടാകും പക്ഷേ ഇവിടെ ഞാൻ ഒരു നിരീക്ഷണം നടത്തുന്നു നിരീക്ഷണം ഇപ്രകാരമാണ് എന്റെ അപ്പ്ലൈഡ് D വാല്യൂ 1 ആണെന്ന് പറയാം എന്റെ നിലവിലെ ഔട്ട്പുട്ട് വാല്യൂ 0 ആണ് നിലവിലെ ഔട്ട്പുട്ട് വാല്യൂവും 0 ആണ് അല്ലെങ്കിൽ എന്റെ ഇൻപുട്ട് 1 ആണ് നിലവിലെ സ്റ്റോർ ചെയ്ത ഔട്ട്പുട്ട് വാല്യൂവും 1 ആണ് അതിനാൽ ഈ കണ്ടിഷനിൽ ഞാൻ അത് സ്റ്റോർ ചെയ്താലും ഔട്ട്പുട്ട് വാല്യൂ മാറില്ല അത് 0 ആയിരുന്നു അതിനാൽ 0 വീണ്ടും സ്റ്റോർ ചെയ്യപ്പെടും അതിനാൽ ഇത് 1 ആണെങ്കിൽ ഞാൻ 1 വീണ്ടും അപ്ലൈ ചെയ്തു അതിനാൽ അത് വീണ്ടും അതേ വാല്യൂ ആയി സ്റ്റോർ ചെയ്യപ്പെടും അതിനാൽ അപ്ലൈ ചെയ്ത ഇൻപുട്ടും നിലവിലെ ഔട്ട്പുട്ടും ഒന്നാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്ന ആ മാറ്റം ഞാൻ ഇവിടെ വരുത്തി അവ സമാനമാണെങ്കിൽ ഞാൻ ക്ലോക്ക് ഡിസേബിൾ ചെയ്യുന്നു കാരണം എനിക്ക് ക്ലോക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല കാരണം അടുത്ത സ്റ്റേറ്റും സമാനമായിരിക്കും അതിനാൽ ഞങ്ങൾ ഇവിടെ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കാണുന്നു ഡിയും ഈ ക്യുവും ഞങ്ങൾ ഒരു XOR ഗേറ്റിലേക്ക് നൽകുന്നു അവ 0 0 അല്ലെങ്കിൽ 1 1 ആകുമ്പോഴെല്ലാം ഔട്ട്പുട്ട് 1 ആയിരിക്കും 0 0 1 1 ഔട്ട്പുട്ട് 0 ആയിരിക്കും കൂടാതെ ക്ലോക്ക് ഡിസേബിൾ ചെയ്യപ്പെടും എന്നാൽ അവ വ്യത്യസ്തമാകുമ്പോൾ 0 1 അല്ലെങ്കിൽ 1 0 ആകുമ്പോൾ മാത്രം നിങ്ങൾ അത് സ്റ്റോർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും ഈ AND ഗേറ്റ് ക്ലോക്ക് പ്രവർത്തനക്ഷമമാക്കുകയും ക്ലോക്ക് വരികയും ചെയ്യും അപ്ലൈ ചെയ്ത D വാല്യൂവും ഔട്ട്പുട്ട് Q സ്റ്റോർ ചെയ്ത വാല്യൂവും വ്യത്യസ്തമാകുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ ഇവിടെ ക്ലോക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വരികയുള്ളൂ തീർച്ചയായും ഓവർഹെഡ് 2 അധിക ഗേറ്റുകളാണ് ഒരു XOR ഒരു AND ഗേറ്റ് എന്നിവ ആവശ്യമാണ് അതിനാൽ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഉള്ളിലെ സിഗ്നൽ ആക്ടിവിറ്റി കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് ഡിസൈനിൽ ഉപയോഗിക്കാവുന്ന ലോ പവർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വിളിക്കപ്പെടുന്നതാണ് ഇത് അടുത്തതായി ഇൻപുട്ട് ഗേറ്റിംഗ് ടെക്നിക് വരുന്നു ഇതും വളരെ ലളിതവും സാധാരണയായി ഉപയോഗിക്കുന്നതുമാണ് ഇവിടെ ഞങ്ങൾ ചില ഇൻപുട്ടുകൾ വീണ്ടും ഡിസേബിൾ ചെയ്യുന്നു അതായത് മാറ്റുന്നതിൽ നിന്ന് ഞങ്ങൾ അവരെ തടയുന്നു അതിനാൽ വിശദീകരിക്കാൻ ഞങ്ങൾ ഒരു ഉദാഹരണം എടുക്കും നിങ്ങൾ കാണുന്നത് പോലെ ചിലപ്പോൾ ഇത് ഒരു ഡാറ്റ പാക്കിലാണ് സംഭവിക്കുന്നത് ഒരു പ്രത്യേക സർക്യൂട്ടിൽ നിങ്ങൾക്ക് നിരവധി ഫങ്ഷണൽ ബ്ലോക്കുകൾ ഉണ്ട് ചില ഓപ്പറേഷൻസ് ആവശ്യമായി വരാം ചിലത് ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം എനിക്ക് കുറച്ച് ഫങ്ഷണൽ ബ്ലോക്കുകൾ ഉണ്ടെന്ന് കരുതുക നമുക്ക് F1 എന്ന് പറയാം എനിക്ക് മറ്റൊരു ബ്ലോക്ക് F2 ഉണ്ട് എനിക്ക് വേറെ ചില ബ്ലോക്ക് F3 ഉണ്ട് ഒന്ന് ആഡർ ഒന്ന് സബ്സ്ട്രാക്ടർ substractor ഒന്ന് മൾട്ടിപ്ലയർ എന്നിങ്ങനെ പറയാം എനിക്ക് A B എന്നിവ വരുന്ന 2 ഇൻപുട്ടുകൾ ഉണ്ട് ഈ 3 ബ്ലോക്കുകളിലേക്കും ഇത് ഫീഡ് ചെയ്യുന്നു ബി 3 ബ്ലോക്കുകളിലേക്കും നൽകുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നതിന്റെ ഔട്ട്പുട്ട് ഭാഗത്ത് ഈ ഫങ്ഷണൽ ബ്ലോക്കുകളുടെ ഔട്ട്പുട്ടുകൾ എടുക്കുന്ന ഒരു മൾട്ടിപ്ലക്സർ ഞങ്ങൾ ഉപയോഗിക്കുന്നു ചില തിരഞ്ഞെടുത്ത വരികൾ അനുസരിച്ച് ഔട്ട്പുട്ടിലേക്ക് അവയിലൊന്ന് തിരഞ്ഞെടുക്കും അതിനാൽ സെലക്ട് ലൈൻ എനിക്ക് സങ്കലനമോ കുറയ്ക്കലോ ഗുണനമോ ചെയ്യേണ്ടതുണ്ടോ എന്ന് സിഗ്നൽ നൽകും അവയിലൊന്ന് തിരഞ്ഞെടുക്കപ്പെടും എന്നാൽ ഈ രൂപകൽപ്പനയിൽ പവർ കൺസംപ്ഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ കാണുന്നു എനിക്ക് അഡിഷൻ ആവശ്യമാണെന്ന് കരുതുക അതായത് എനിക്ക് ബ്ലോക്ക് F1 പ്രവർത്തിപ്പിക്കാൻ ആഗ്രഹമുണ്ട് അതിനാൽ ഞാൻ ചില ഇൻപുട്ടുകൾ A B എന്നിവ അപ്ലൈ ചെയ്യുന്നു ഈ F1 കണക്കാക്കുന്നു റിസൾട്ട് ഇവിടെ ലഭ്യമാണ് അതിനാൽ ഞാൻ സെലക്ട് ലൈൻ അപ്ലൈ ചെയ്യുന്നു ഈ റിസൾട്ട് പുറത്തുവരുന്നു എന്നാൽ ഈ സർക്യൂട്ടിൽ എന്ത് സംഭവിക്കും കാരണം എയും ബിയും ഈ എഫ് 2 എഫ് 3 എന്നിവ മാറ്റുന്നതിനാൽ കാല്കുലേഷനിൽ പങ്കെടുക്കുന്നു ഉള്ളിൽ സിഗ്നൽ മാറ്റങ്ങളും നടക്കുന്നുണ്ട് അവർ ഔട്ട്പുട്ടുകളിൽ ചില റിസൾട്ടും കംപ്യുട്ട് ചെയ്യും പക്ഷേ എന്നിരുന്നാലും മൾട്ടിപ്ലക്സർ അവരെ തിരഞ്ഞെടുക്കില്ല മൾട്ടിപ്ലക്സർ അവയിലൊന്ന് മാത്രമേ തിരഞ്ഞെടുക്കൂ ഞാൻ F1 തിരഞ്ഞെടുക്കാൻ പോകുന്നുവെന്ന് തിരഞ്ഞെടുത്തതിൽ നിന്ന് എനിക്കറിയാമെങ്കിൽ എന്തുകൊണ്ട് F2 F3 എന്നിവയുടെ ഇൻപുട്ടുകൾ ഏതെങ്കിലും വിധത്തിൽ ഡിസേബിൾ ചെയ്തുകൂടാ അതിനാൽ ഇവിടെയും ആ സിഗ്നൽ ട്രാന്സിഷൻ ശരിയായി സംഭവിക്കുന്നില്ല ഇതാണ് ഈ രീതിക്ക് പിന്നിലെ അടിസ്ഥാന തത്വം അതിനാൽ ഇവിടെ നമുക്ക് ആഡറിന്റെയും സബ്ട്രാക്ടറിന്റെയും ഒരു ഉദാഹരണം എടുക്കാം ഞങ്ങൾക്ക് ഒരു ആഡർ ഉണ്ടെന്ന് പറയുക ഞങ്ങൾക്ക് ഒരു സബ്ട്രാക്ടർ ഉണ്ട് ഞാൻ എടുത്ത അതേ ഉദാഹരണം അതിനാൽ ഇൻപുട്ടിൽ A B എന്നിവ വരുന്ന 2 ഇൻപുട്ടുകൾ 2 രജിസ്റ്ററുകളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു അവ ലോഡ് ചെയ്യാൻ ക്ലോക്ക് ഉപയോഗിക്കുന്നു ഔട്ട്പുട്ടിനൊപ്പം എനിക്ക് ഒരു മൾട്ടിപ്ലക്സർ ഉണ്ട് അത് ഞാൻ സങ്കലനമോ കുറയ്ക്കലോ വേണമോ എന്ന് തിരഞ്ഞെടുത്തു ഇതിന്റെ ഔട്ട്പുട്ട് വീണ്ടും മറ്റൊരു രജിസ്റ്ററിലേക്ക് പോകുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരുതരം ഗേറ്റുകൾ ഉപയോഗിക്കുന്നു ഇത് ബഫറുകളാകാം ഇത് ട്രൈ സ്റ്റേറ്റ് ബഫറുകളാകാം പക്ഷേ എനിക്ക് അഡിഷനു താൽപ്പര്യമുള്ളപ്പോഴെല്ലാം ഞാൻ ഈ ബഫറുകൾ പ്രവർത്തനക്ഷമമാക്കും എന്നതാണ് ആശയം ഞാൻ ഇവ പ്രവർത്തനരഹിതമാക്കും ഇതിനർത്ഥം ഇവിടെ സിഗ്നൽ ട്രാന്സിഷനൊന്നും സംഭവിക്കില്ല എന്നാണ് അതിനാൽ എന്തായാലും ഞാൻ മാർക്കുകൾ തിരഞ്ഞെടുക്കും അതിനാൽ ഈ ആഡറിന്റെ ഔട്ട്പുട്ട് തിരഞ്ഞെടുക്കപ്പെടും അതിനാൽ പ്രശ്നമില്ല F1 കണ്ട്രോൾ സിഗ്നൽ കുറയ്ക്കലും F2 സങ്കലനവും തിരഞ്ഞെടുക്കുന്നുവെന്ന് ഞാൻ അനുമാനിക്കുന്നു അതിനാൽ മറ്റ് ബ്ലോക്കിന്റെ ഇൻപുട്ട് ടോഗിൾ ചെയ്യാൻ ഞങ്ങൾ അനാവശ്യമായി അനുവദിക്കുന്നില്ല കാരണം ഇത് ഉപയോഗശൂന്യമായ ട്രാന്സിഷനായിരിക്കും എനിക്ക് സങ്കലനം ആവശ്യമുള്ളപ്പോൾ ഞാൻ കുറയ്ക്കൽ ഉപയോഗിക്കില്ല എന്ന് കരുതുക അതിനാൽ എന്തിനാണ് അനാവശ്യമായി ഈ സിഗ്നൽ ടോഗിൾ ആക്കി അധിക പവർ കൺസംപ്ഷൻ ചെയ്യുന്നത് ഇതാണ് അടിസ്ഥാന ആശയം അതിനാൽ അവസാനത്തെ ഒരു സാങ്കേതികത ഞങ്ങൾ ഇവിടെ ചർച്ചചെയ്യുന്നു ഇത് വിവിധ സാങ്കേതിക വിദ്യയാണ് ഇത്റെഡ്യൂസ്ഡ് പവർ ഷിഫ്റ്റ് രജിസ്റ്ററാണ് ഇപ്പോൾ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ സാധാരണയായി എന്താണ് അത് കാസ്കേഡിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഡി ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഒരു ശൃംഖലയാണ് ക്ലോക്ക് ഉപയോഗിച്ച് ഞങ്ങൾ ഒരു വശത്ത് നിന്ന് ഡാറ്റ ഫീഡ് ചെയ്യുന്നു അവ ഷിഫ്റ്റ് ചെയ്യപ്പെടും ഞങ്ങൾ മറുവശത്ത് നിന്ന് ഡാറ്റ എടുക്കുന്നു എനിക്ക് ഒരു n സ്റ്റേജ് ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ടെന്ന് പറയാം ഞാൻ ഫ്രീക്വൻസി എഫ് ക്ലോക്ക് ഉള്ള ഷിഫ്റ്റ് രജിസ്റ്റർ ക്ലോക്ക് ചെയ്യുന്നു ഇപ്പോൾ എനിക്ക് എന്റെ സർക്യൂട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ കുറഞ്ഞ പവർ ആക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ പിന്തുടരുന്ന തത്വം ഇതുപോലെയാണ് ഇത് ഞാൻ ഷിഫ്റ്റ് രജിസ്റ്ററിനെ 2 ഭാഗങ്ങളായി വിഭജിക്കുന്നു ഇത് ഇതുപോലെയാണെന്ന് നോക്കൂ എന്റെ ഒറിജിനൽ ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഈ ഘട്ടങ്ങൾ അടങ്ങിയിരിക്കുന്നത് കാണുക സ്റ്റേജ് 1 2 3 4 5 ഇതുപോലെ 6 പറയുക ഇപ്പോൾ ഞാൻ അവയെ 2 ഷിഫ്റ്റ് രജിസ്റ്ററുകളായി വിഭജിച്ചു ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിലെ ഒറ്റ സംഖ്യ സെല്ലുകളും മറ്റേ ഷിഫ്റ്റ് രജിസ്റ്ററിലെ ഇരട്ട സംഖ്യ സെല്ലുകളും മുമ്പത്തെ കേസ് കാണുക ഞാൻ എന്റെ ഇൻപുട്ട് ഡാറ്റ ഒരറ്റത്ത് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു അവയെല്ലാം ഓരോന്നായി കടന്നുപോകുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് 2 വ്യത്യസ്ത ഷിഫ്റ്റ് രജിസ്റ്ററുകൾ ഉണ്ട് നേരത്തെയുള്ള കേസിൽ ഞാൻ അപ്ലൈ ചെയ്ത ഡാറ്റ D1 പിന്നെ D2 പിന്നെ D3 പിന്നെ D4 എന്നിങ്ങനെ പറയാം ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ D1 അപ്ലൈ ചെയ്യുന്നു തുടർന്ന് ഞാൻ ഇവിടെ D2 അപ്ലൈ ചെയ്യുന്നു തുടർന്ന് ഇവിടെ D3 അപ്ലൈ ചെയ്യുക തുടർന്ന് D4 ഇവിടെ മാറിമാറി അപ്ലൈ ചെയ്യുക ഈ ഷിഫ്റ്റ് ക്ലോക്ക് ഫ്രീക്വൻസിയുടെ പകുതിയിൽ ക്ലോക്ക് ചെയ്യുന്നു ഇവിടെ ഫ്രീക്വൻസി f ആയിരുന്നു എന്ന് പറയാം ഇവിടെ ഞാൻ f 2 ലും f 2 ലും ക്ലോക്ക് ചെയ്യുന്നു എന്നാൽ അവസാന ഔട്ട്പുട്ടിൽ ഞാൻ ഒരു മൾട്ടിപ്ലക്സർ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്നും ഇതിൽനിന്നും മാറിമാറി ഔട്ട്പുട്ടുകൾ എടുക്കാം എനിക്ക് f ന്റെ ഫ്രീക്വൻസിയിലുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ കഴിയും കാരണം അവ ഓരോന്നും ഇതിന്റെ പകുതി വേഗതയിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മൊത്തത്തിൽ പുറത്തുവരുന്ന ഡാറ്റ ഈ നിരക്ക് ഇരട്ടിയായിരിക്കും അത് f ആയിരിക്കും അതിനാൽ ആശയം ഇതുപോലെയാണ് ഞാൻ ഡയഗ്രം കാണിക്കുന്നു ഇവിടെ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഈ തത്വത്തെ ചൂഷണം ചെയ്യുകയാണ് പവർ ഡിസ്പേഷൻ ഫ്രീക്വൻസിക്ക് നേരിട്ട് ആനുപാതികമാണ് ഞങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകളെ 2 ഉപസെറ്റുകളായി വിഭജിക്കുന്നു ആദ്യത്തേത് നമ്മൾ പോസിറ്റീവ് എഡ്ജിൽ ക്ലോക്ക് ചെയ്യുന്നു മറ്റൊന്ന് നെഗറ്റീവ് എഡ്ജിലൂടെയാണ് ഞങ്ങൾ ക്ലോക്ക് ഫ്രീക്വൻസി പകുതിയാക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ D1 D2 D3 D4 എന്ന 2 ഉപസെറ്റുകളിലേക്ക് ഇൻപുട്ട് മാറിമാറി പ്രയോഗിക്കുന്നു അതിനാൽ സ്കീമാറ്റിക് ഇതുപോലെ കാണപ്പെടും ഇവയാണ് 2 ഷിഫ്റ്റ് രജിസ്റ്ററുകൾ ഈ ക്ലോക്ക് വരുന്നു എന്തായാലും ഈ എഡ്ജസ് കാണുന്നില്ല നിങ്ങൾക്ക് അവ അകത്താക്കാം അതിനാൽ ഈ ക്ലോക്ക് വരുന്നു ഞാൻ അവയെ f ബൈ2 ന്റെ പകുതി ഫ്രീക്വൻസിയിൽ ക്ലോക്ക് ചെയ്യുന്നു പുറത്തുപോകുന്ന ഈ അവസാന മൾട്ടിപ്ലക്സർ ഇവിടെ നിന്നും ഇവിടെ നിന്നും ഡാറ്റ എടുക്കുകയും f ന്റെ ക്ലോക്ക് ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും അതിനാൽ ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ വേഗത അതേ തലത്തിൽ നിലനിർത്തുന്നതിന് എന്നാൽ പവർ കൺസംപ്ഷൻ ഗണ്യമായി കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വളരെ ലളിതമായ ഒരു സാങ്കേതികതയാണിത് അതിനാൽ ഇത്തരത്തിലുള്ള അഡ്ഹോക്ക് ടെക്നിക്കുകൾ നിങ്ങളുടെ ഡിസൈനിന്റെ വിവിധ ബ്ലോക്കുകളിൽ സൂചിപ്പിക്കാൻ കഴിയും ഞാൻ ചർച്ച ചെയ്ത വളരെ ജനപ്രിയമായി ഉപയോഗിക്കുന്ന ചില രീതികൾ കൂടാതെ ചിലത് ഞങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും അതിനാൽ നിങ്ങൾക്ക് പവർ കൺസംപ്ഷൻ കുറയ്ക്കാൻ ശ്രമിക്കാം അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു അതിനാൽ ഞങ്ങളുടെ അടുത്ത പ്രഭാഷണങ്ങളിൽ പിന്നീട് ചില സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ തുടരും